ഹലോ സെക്യൂർ സിസ്റ്റംസ് എൻജിനീയറിങ്ങിന്റെ ഈ ഡെമോൺസ്ട്രേഷനിലേക്കു സ്വാഗതം മുമ്പത്തെ ഡെമോൺസ്ട്രേഷനിൽ നമ്മൾ കണ്ടത് രണ്ട് പ്രൊസസ്സുകൾ ഒരു കാഷ്മെമ്മറി കമ്മ്യൂണിക്കേഷനു വേണ്ടി ഷെയർ ചെയ്തു ഉപയോഗിക്കുന്നതായിരുന്നു ഒരു സെന്റെറും റിസിവറും ഷെയേർഡ് കാഷ്മെമ്മറി ഉപയോഗിച്ച് എങ്ങനെ മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നു നമ്മൾ കാണിച്ചു ലോഡ് ഓപ്പറേഷൻ മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുന്നത് കാഷ്മെമ്മറിയിൽ കോൺഫ്ളിറ്റിന് കരണമാകുന്നതിനാൽ എക്സിക്യൂഷൻ സമയത്തിൽ വേരിയേഷൻ ഉണ്ടാകാറുണ്ട് ഈ എക്സിക്യൂഷൻ സമയത്തിൽ ഉള്ള വേരിയേഷൻ ആണ് ഒരു പ്രൊസസ്സിൽ നിന്ന് മറ്റൊന്നിലേക്കു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ അത് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടു പോകും ക്യാഷ് മെമ്മറികൾ ക്രിപ്റ്റോഗ്രാഫിക് സൈഫറുകൾ ബ്രേക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കു കാണാം ഒരു AES സൈഫറിൽ നിന്ന് എങ്ങനെയാണ് രഹസ്യ കീയുടെ കുറച്ച് ബിറ്റുകൾ റിക്കവർ ചെയ്യുന്നത് എന്നും അത് എങ്ങനെയാണ് ഒരു അറ്റാക്കിന് ഉപയോഗിക്കുന്നത് എന്നും നമുക്കു നോക്കാം അപ്പോൾ നമ്മൾ അറ്റാക്കിലേക്കു പോകുന്നതിനു മുമ്പ് AES - നേകുറിച്ച് ഒരു ചെറിയ വിവരണം ആകാം അതോടൊപ്പം എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നും നോക്കാം ഈ വിവരണം ഈയൊരു പ്രത്യേക അറ്റാക്കിനെ കുറിച്ച്മനസ്സിലാക്കാൻ പര്യാപ്തമാണ് നമുക്ക് അറിയാവുന്നതു പോലെ AES ഒരു പ്രശസ്തമായ സിമ്മട്രിക് കീ സൈഫറാണ് അത്പല പല വ്യത്യസ്തമായ വെറൈറ്റീകളിലുള്ള ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നുണ്ട് AES ഇതു പോലെയാണ് ഇരിക്കുക ഒരു ബ്ലോക്ക്ഡയഗ്രം ആയതു കൊണ്ട് ഈ ബ്ലോക്ക് ഒരു പ്ലെയിൻ ടെസ്റ്റ് ഇൻപുട്ട് ആയി എ ടുക്കുന്നു എന്നിട്ട് C എന്ന സൈഫർ ടെസ്റ്റ് ഔട്ട്പുട്ട് ആയി തരുന്നു ഈ AES ഓപ്പറേഷൻ ആണ് പ്ലെയിൻ ടെസ്റ്റിന്മേൽ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു രഹസ്യ കീ ഉണ്ട് അതും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ആയതിനാൽ ഇവിടെ AES ന്റെ ഔട്ട്പുട്ട് ആയി ലഭിക്കുന്ന സൈഫർ ടെക്സ്റ്റ് ഈ പ്ലെയിൻ ടെസ്റ്റിന്റെയും രഹസ്യ കീയുടെയും ഒരു ഫങ്ക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ വേറെ വീഡിയോ ലെക്ചർറിൽ കണ്ടിട്ടുള്ളതു പോലെ അറ്റാക്കർക്കു പ്ലെയിൻ ടെസ്റ്റിനെ കുറിച്ചും അതിന്റേതായ സൈഫർ ടെസ്റ്റിനെ കുറിച്ചും AES ൻറെ ഇമ്പ്ലിമെന്റേഷനെ കുറിച്ചും നന്നായി അറിയാം ഇവിടെ രഹസ്യമായിരിക്കുന്നത് കീ മാത്രമാണ് ഒരു സാദാരണ AES അൽഗോരിതത്തിനു 128 ബിറ്റ് ലെങ്ത് ഉള്ള കീ ഉണ്ടാകും അതായതു 2 128 സാധ്യമായ ഐഡിയകൾ ഉണ്ടാകും ഇങ്ങനെയുള്ള ശക്തമായ ഒരു സൈഫെർനെ തകർക്കാൻ ലഭ്യമായ നിയന്ത്രിതമായ കമ്പ്യൂട്ടിങ് പവർ പരിഗണിക്കുമ്പോൾ പല നൂറ്റാണ്ടുകളുടെ പ്രവർത്തനം ആവശ്യം വരും ഇവിടെ കാണിക്കുന്നത് എന്താണെന്നുവച്ചാൽ ഒരു അറ്റാക്കർക്കു പ്ലെയിൻ ടെക്സ്റ്റ് തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ AES മുഖാന്തിരം എൻക്രിപ്ട് ചെയ്യപ്പെട്ട ഒരു പ്ലെയിൻ ടെക്സ്റ്റ് നിരീക്ഷിക്കാനോ കഴിയുന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ ടൈം കൂടി നിരീക്ഷിക്കും അങ്ങനെയാണെങ്കിൽ ഈ വലിയ പേസ് 2 പവർ 128 എന്നത് നന്നായി കുറക്കാം എന്താണ് അറ്റാക്കർ ലിവറെജ് ചെയ്യുന്നത് അതായിരിക്കും ഈ AES ഇമ്പ്ലിമെന്റേഷൻറെ സ്വഭാവം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ AES ഇമ്പ്ലിമെൻറ്റേഷൻ കാണണം കുറച്ചു വിശദമാടിവിശദമായി AES അൽഗോരിതവും ആദ്യമായി 128 ബിറ്റിന്റെ പ്ലെയിൻ ടെക്സ്റ്റ് P0 മുതൽ P15 വരെ 16 ബൈറ്റ്സ് ആയി മുറിക്കുന്നു ഇമ്പ്ലിമെൻറ്റേഷൻ സമയത്തു ഈ ബൈറ്റ്സ് സൈഫെർലേക്ക് പോകുമ്പോൾ സീക്രെട്ട് കീയുടെ 16 ബൈറ്റ്സ് ആയി ഇവ XOR ചെയ്യപ്പെടുന്നു അങ്ങനെ ഇവിടെ നമുക്ക് K15 ലഭിക്കുന്നു അത് സീക്രെട്ട് കീയുടെ 15 ആം ബൈറ്റ് ആണ് അതുപോലെതന്നെ K1 K0 അങ്ങനെ പോകുന്നു സൈഫെർലേ അടുത്ത ഓപ്പറേഷൻ ഒരു ലുക്ക്അപ്പ് ടേബിൾ ആണ് ഈ ഇമ്പ്ലിമെൻറ്റേഷനിലെ അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലുക്ക്അപ്പ് ടേബിളിലേക്കുള്ള മെമ്മറി അക്സസ്സ് ആണ് ഇത് T ടേബിൾ എന്നറിയപ്പെടുന്ന ഈ ലുക്ക്അപ്പ് ടേബിൾ നിര്വചിച്ചിരിക്കുന്നത് 256 എലെമെൻറ്സ് ഉള്ള 1024 ബൈറ്റ്സ് സൈസ് ഉള്ള ഒന്നായാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലുള്ള ഒരു ടേബിൾ ഉണ്ട് ഇത് മാത്രമേ നമുക്ക് ക്യാഷെ ടൈമിംഗ് അറ്റാക്ക് മനസ്സിലാക്കുവാൻ ആവശ്യമായുള്ളൂ നമ്മൾ ഈ വിശദീകരണത്തിൽ ഉപയോഗിക്കുന്ന ഈ ഇമ്പ്ലിമെൻറ്റേഷൻ T0 മുതൽ T4 വരെ 5 T ടേബിൾസ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ആദ്യത്തെ നാലെണ്ണം നമുക്ക് പ്രധാനമാണ് T0 T3 എന്നീ ടേബിളുകളിലേക്ക് ആദ്യത്തെ ആക്സസ്സുകൾ നോക്കാം P0 മുതൽ P15 വരെ 16 ബൈറ്റ്സ് ഉണ്ട് കൂടാതെ അതാതു പ്ലെയിൻ ടെക്സ്റ്റ് ബൈറ്റ്സുമായി XOR ചെയ്തിരിക്കുന്ന 16 കീ ബൈറ്റ്സ് T0 P0 യുമായി XOR ചെയ്യും എന്നിട്ടത് K0 യുമായി XOR ചെയ്യും അതുപോലെ തന്നെ T1 അത് P1 മായും K1 മായും XOR ചെയ്യും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നുവച്ചാൽ ഈ XOR ഓപ്പറേഷനാണു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ XOR ന്റെ റിസൾട്ട് അനുസരിച്ച് P0 XOR K0 നൽകുന്ന ഈ ടേബിളിന്റെ ഇന്ഡക്സിലേക്ക് ഒരു ലുക്ക് അപ്പ് ഉണ്ടാകും അതുപോലെ തന്നെ T2 ലേക്കും P0 XOR K0 നൽകുന്ന ലൊക്കേഷനിലേക്കും T3 യുടെ P3 XOR K3 എന്ന ലൊക്കേഷനിലേക്കും ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ടത് P4 മുതൽ P7 വരെയുള്ള പ്ലെയിൻ ടെക്സ്റ്റിന്റെ ടേബിളിലേക്കുള്ള 4 ആക്സസ്സുകൾ ആണ് ഇത് നടക്കുന്നത് T0 ക്കു P4 XOR K4 എന്ന ലൊക്കേഷനിലും T നു P5 XOR K5 ലും T2 നു P6 XOR K6 അങ്ങനെ പോകുന്നു ക്യാഷെയുടെ കാഴ്ചപ്പാടിൽ ഈ ടേബിൾ ലുക്ക് അപ്പിനെ നമുക്കൊന്ന് കാണാം തുടക്കത്തിൽ നമുക്ക് ഈ T0 ടേബിൾ ആക്സസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം അതായത് ഈ 2 ടേബിൾ ആക്സസ്സിൽ അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഈ പ്രോസസറും ക്യാഷെ മെമ്മറിയും ആണ് ഉള്ളത് ഇത് അടുത്തകാലത്ത് ഉപയോഗിച്ച ഡാറ്റയെ സ്റ്റോർ ചെയ്തുവക്കും കൂടാതെ നമുക്കൊരു വലിയ ലോവർ ക്യാഷെ മെമ്മറിയും ഉണ്ട് ഇതാണ് ക്യാഷെ മെമ്മറി ഈ ടേബിളുകൾ T0 T3 എക്സിക്യൂഷൻറെ തുടക്ക സമയത്തു DRAM ൽ ഉണ്ടാകും ഇപ്പോൾ നമുക്ക് ഈ ടേബിളിന്റെ P0 XOR K0 P4 XOR K4 എന്നീ ലൊക്കേഷനുകളിലേക്കുള്ള അക്സസ്സ് പരിഗണിക്കാം T0 XOR K0 എന്ന ഇന്ഡക്സിലേക്കുള്ള ആദ്യത്തെ അക്സസ്സ് നടക്കുമ്പോൾ ഈ ടേബിളിന്റെ കുറച്ചു ഭാഗങ്ങൾ ക്യാഷെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും അതേ ടേബിളിന്റെ P4 XOR K4 ഇന്ഡക്സിലേക്കുള്ള രണ്ടാമത്തെ അക്സസ്സ് സമയത്തു രണ്ടു സംഗതികൾ നടക്കും ചിലപ്പോൾ ഒരു ക്യാഷെ ഹിറ്റ് കിട്ടും അതായത് ഇന്ഡക്സ് T4 XOR K4 എന്നത് P0 XOR K0 നു സമീപത്തോ അല്ലെങ്കിൽ ഈ വിസിനിറ്റിയിലോ ആണ് ഈ കേസിൽ പ്രോസസ്സിനു ആവശ്യമായ വിവരം ടേബിളിൽ നിന്ന് തന്നെ ലഭിക്കും ലോവർ ലെവൽ ക്യാഷെയിലേക്കോ DRAM ലേക്കോ പോകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മാത്തമാറ്റിക്കൽ രീതിയിൽ എഴുതണമെങ്കിൽ നമുക്ക് പറയാം P0 XOR K0 ഏതാണ്ട് P4 XOR K4 നു തുല്യമാണെങ്കിൽ ക്യാഷെ ഹിറ്റ് ലഭിക്കും അല്ലെങ്കിൽ P0 XOR K0 P4 XOR K4 നു തുല്യമല്ലെങ്കിൽ ക്യാഷെ മിസ്സ് ആയിരിക്കും ലഭിക്കുക ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്ട് എന്ന വാക്കാണ് എന്തുകൊണ്ടെന്നാൽ P0 XOR K0 ഉം P4 XOR K4 ഒരേ ക്യാഷെ ലൈനിൽ വീഴാം അപ്പോഴാണ് ക്യാഷെ ഹിറ്റ് സംഭവിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷൻ P4 XOR K4 ക്യാഷെ മിസ്സിനോ ഹിറ്റിനോ കാരണമാകാം അതായതു ഈ പ്രത്യേക ലുക്ക് ആപ്പിൾ നമുക്കുള്ളത് ഒരു ക്യാഷെ ഹിറ്റ് അല്ലെങ്കിൽ ക്യാഷെ മിസ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ക്യാഷെ ഹിറ്റ് ആണെന്ന് ഊഹിക്കാം എളുപ്പത്തില് ഈ അപ്പ്രോക്സിമേഷനെ നമുക്ക് ഇക്വാളിറ്റി വച്ച് മാറ്റാം അതായത് P0 XOR K0 K0 XOR K4 നു തുല്യമാണെന്ന് ഇപ്പോൾ അറ്റാക്കർക്കു P0 P4 എന്നീ പ്ലെയിൻ ടെക്സ്റ്റ് ബൈറ്റ്സ് അറിയാമെങ്കിൽ അത് അർത്ഥമാക്കുന്നത് അവനു കീ ബിറ്റിന്റെ XOR അറിയാമെന്നാണ് K0 XOR K4 അതായതു അറ്റാക്കർക്കു സീക്രെട്ട് കീയെ കുറിച്ച് കുറച്ചു വിവരങ്ങൾ ലഭിച്ചു എന്നർത്ഥം വേറൊരുവിധത്തിൽ നോക്കിയാൽ K0 എന്നത് ഒരു ബൈറ്റ് ആണ് അതായത് 0 മുതൽ 255 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ K4 എന്നത് വേറൊരു സ്വതന്ത്ര ബൈറ്റ് അതിനും സാധ്യമായ വാല്യൂ 0 മുതൽ 255 വരെയാണ് അതുകൊണ്ട് ഈ ഇമ്പ്ലിമെൻറ്റേഷൻ റൺ ചെയ്യാതെ തന്നെ K0 യുടെയും K4 ൻറെയും വാല്യൂകൾ അറ്റാക്കർക്കു ഊഹിക്കാൻ സാധിക്കും ഇവിടെ 512 സാധ്യതകൾ ഉണ്ട് മറ്റൊരു രീതിയിലാണെങ്കിൽ അതായത് അറ്റാക്കർ ഈ ഇമ്പ്ലിമെൻറ്റേഷൻ റൺ ചെയ്ത് എക്സിക്യൂഷൻ ടൈം മെഷർ ചെയ്യുകയാണെങ്കിൽ ക്യാഷെ മിസ്സുകളും ഹിറ്റുകളും തിരിച്ചറിഞാൽ അനിശ്ചിതത്വം 512 ൽ നിന്ന് 256 ന് താഴെ ആയി കുറക്കാം ഇമ്പ്ലിമെൻറ്റേഷൻ റൺ ചെയ്യാതെ അറ്റാക്കർ K0 ഉം K4 ഉം ഊഹിക്കുകയാണെങ്കിൽ അവിടെ 2 16 സാധ്യതകൾ ഉണ്ട് K0 നു 2 8 ഉം K4 നു 2 8 ഉം രണ്ടും കൂടി 2 16 മറ്റേ രീതിയിൽ ഈ ഇമ്പ്ലിമെൻറ്റേഷൻ റൺ ചെയ്ത ക്യാഷെ മിസ്സുകളും ക്യാഷെ ഹിറ്റുകളും വേർതിരിച്ചറിയാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്നിഹിതമായിരിക്കുന്ന ടൈമിംഗ് ചാനൽ മുഖാന്തിരമോ ഇത് നമ്മുടെ 2 16 ൽ നിന്ന് 2 8 ആയി കുറക്കാൻ കഴിയും അപ്പോൾ വേണ്ടത് എന്താണെന്നുവച്ചാൽ അറ്റാക്കർ K0 യുടെ വാല്യൂ ഊഹിക്കുന്നു എന്നിട്ട് ആ ഊഹം വച്ച് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അവനു K4 ൻറെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും ഇതാണ് ഈ അറ്റാക്കിന്റെ രീതി ഈ അറ്റാക്ക് Intel core 2 Duo പോലുള്ള പഴയ കംപ്യൂട്ടറുകളിൽ നന്നായി പ്രവർത്തിക്കും എന്നാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന I7 അതുപോലെ I3 I5 പോലുള്ള പുതിയ കംപ്യൂട്ടറുകളിൽ ഈ അറ്റാക്ക്സ് അത്ര വിജയകരമല്ല എന്തിരുന്നാലും ഇതിപ്പോഴും കീയെ കുറിച്ചുള്ള അനിശ്ചിതത്വം 128 ബിറ്റിൽ നിന്ന് അതിനേക്കാൾ വളരെ താഴേക്ക് കുറക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ശരിക്കുള്ള കോഡും അറ്റാക്കിന്റെ വിവരണവുമാണ് ഇത് നിങ്ങള്ക്ക് ഈ കോഴ്സിന്റെ കൂടെ നൽകിയ വിർച്വൽ മെഷീനിൽ പ്രവർത്തിച്ചേക്കില്ല നിങ്ങളുടെ ഉബുണ്ടു മെഷീനിൽ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ഇത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കോഡും നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ കോഡിൽ അറ്റാക്ക് C എന്ന പേരിൽ കാണുന്നതാണ് അറ്റാക്ക് പിന്നെ ലൈബ്രറി ഉണ്ട് അതിലാണ് AES ഇമ്പ്ലിമെൻറ്റേഷൻ നമുക്ക് ഈ AES ഇമ്പ്ലിമെൻറ്റേഷൻ ഒന്ന് നോക്കാം ഓപ്പൺ SSL ലൈൻസിൽ ആണ് ഈ AES കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് T0 മുതൽ T4 വരെയുള്ള ടേബിളുകൾ ആണ് അവ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്ന പ്രകാരമാണ് ഓരോ ടേബിളും 32 ബിറ്റ്സ് ആണ് അതായത് മൊത്തത്തിൽ 256 എൻട്രികൾ 1024 എലെമെൻറ്സ് ഉണ്ട് ഈ ടേബിളിൽ ഇതേപോലെ രണ്ടാമത്തെ ടേബിൾ Te1 അതും 1024 ബൈറ്റ്സ് ആണ് Te2 ഉം Te3 ഉം Te4 ഉണ്ട് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല മറ്റു ടേബിളുകൾ ഞാൻ ഡീക്രിപ്ഷന് വേണ്ടിയാണു ഉപയോഗിക്കുന്നത് അത് നമുക്ക് പ്രധാനമല്ല നമുക്ക് നേരേ AES എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്കു പോകാം ഈ അൽഗോരിതം ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആണ് ഇൻപുട്ട് ആയി എടുക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന AES കീ എക്സ്പാൻഡഡ് കീയോട് സ്ട്രക്ച്ചർഡ് ആയതാണ് അത് എൻക്രിപ്ഷൻ നടത്തി ഔട്പുട്ട് ആയി സൈഫർ ടെക്സ്റ്റ് നൽകുന്നു ഈ AES ന് പല വ്യത്യസ്ത ഓപ്പറേഷൻ റൌണ്ടുകൾ ഉണ്ട് പക്ഷെ നമുക്കീ ഓപ്പറേഷനുകൾ മാത്രമാണ് പ്രധാനമായിട്ടുള്ളത് ഈ 4 ലൈനുകൾ ആണ് AES ലെ സീക്രെട്ട് കീയെ XOR ചെയ്യുന്നത് എന്നിട്ട് ഒരു പോയിന്റർ ലഭിക്കുന്നു ഈ ഇൻപുട്ടുകൾക്കു വേണ്ടി ഇവിടെ ഇൻപുട്ട് 16 ബൈറ്റ്സ് ആണ് അതിന്റെ കൂടെ റൌണ്ട് കീകൾ XOR ചെയ്യും നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ ആദ്യ റൌണ്ട് പ്രവർത്തനം കുറെ ടേബിൾ ലുക്ക് അപ്സ് ആണ് അതുകൊണ്ട് റിസൾട്ടുകൾ XOR ചെയ്ത് സൈഫറിന്റെ മറ്റു റൌണ്ടുകൾക്കു കൈമാറുന്നു ക്യാഷെ ടൈമിംഗ് അറ്റാക്കിന്റെ കാഴ്ചപ്പാടിൽ സൈഫറിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടവ അല്ല ഇനി മുന്നോട്ടു പോകുന്നതിനു മുൻപ് ഈ AES ഇമ്പ്ലിമെൻറ്റേഷൻ ഒന്ന് റൺ ചെയ്യാം ഇത് ഒരു AES 1024 o എന്ന ഒബ്ജക്റ്റ് ഫയൽ ഉണ്ടാക്കും അതായിരിക്കും ഇനി അറ്റാക്കിൽ ഇൻവോൾവ് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ ഈ കാണുന്ന അറ്റാക്ക് കോഡിലേക്കു പോകാം നമ്മൾ നേരെ ആട്ടക്ക ഫങ്ക്ഷനിലേക്കു കടക്കുകയാണ് അവിടെ കാണുന്നത് ആദ്യമായി നമ്മൾ ഒരു റാൻഡം പ്ലെയിൻ ടെക്സ്റ്റ് എടുക്കുകയാണ് ഇത് ഗ്ലോബലി നിർവചിക്കപ്പെടുന്നത് pt എന്ന 16 ബൈറ്റ്സിന്റെ അറേ ആയാണ് നമ്മൾ അതിൽ ചില സംഗതികൾ റാൻഡം ആയി തിരഞ്ഞെടുക്കുന്നുണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് 0 1 2 3 ലെ ചില ബൈറ്റ്സിന് നമ്മൾ ഹയർ നിബ്ബ്ൾ പൂജ്യം ആക്കുന്നുണ്ട് പിന്നെ നമ്മൾ ക്ലീൻക്യാഷെ എന്ന ഫങ്ക്ഷനും AES എൻക്രിപ്റ്റും AES encrypt വിളിക്കുന്നു അപ്പോൾ AES എൻക്രിപ്ഷൻ ആദ്യത്തെ പാരാമീറ്റർ ആയ പ്ലെയിൻ ടെക്സ്റ്റിനെ എക്സ്പാൻഡഡ് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു ഇവിടെയും പിന്നെ ഇവിടെയും കാണുന്ന ഈ ടൈം സ്റ്റാംപ്സ് ഈ AES എക്സിക്യൂഷന്റെ ടൈം കാണാൻ ഉപയോഗിക്കുന്നു നിങ്ങള്ക്ക് മുൻപത്തെ വീഡിയോ കാണാം കോവേർട്ട് ചാനലിനെ കുറിച്ചുള്ളത് എന്നിട്ട് എങ്ങനെയാണ് ഈ ടൈം സ്റ്റാംപ്സ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നതെന്നും ടൈം ലഭിക്കുന്നതെന്നും കാണാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്താണെന്നുവച്ചാൽ ഈ ടൈമിങ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഇത് പോലത്തെ ഫ്രേക്യുഎൻസി ഡിസ്ട്രിബ്യുഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കും ഉപയോഗിച്ച് ടൈമിംഗ് റെക്കോർഡ് ചെയ്ത് പിന്നെയൊരു പോയിന്റിൽ സീക്രെട്ട് കീ കണ്ടെത്താൻ സാധിക്കും നമ്മൾ ഈ പ്രോഗ്രാമ്മിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ശരിക്ക് ഇത് താല്പര്യം ഉളവാക്കുന്നതാണ് നിങ്ങൾ ഇത് റൺ ചെയ്തു കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കൂ നമ്മൾ make റൺ ചെയ്താണ് ഈ പ്രോഗ്രാം കംപൈൽ ചെയ്യുന്നത് അപ്പോൾ അറ്റാക്ക് എന്ന ഔട്പുട്ട് ലഭിക്കുന്നു നമ്മൾ ഈ അറ്റാക്ക് റൺ ചെയ്ത് സീക്രെട്ട് കീ ലഭ്യമാക്കുക എന്നതാണ് ഐഡിയ കീ എന്ന് വിളിക്കുന്ന ഈ ഫൈലിൽ ആണ് സീക്രെട്ട് കീ ഉള്ളത് ഈ ഫയൽ AES കോഡ് റീഡ് ചെയ്യുകയും എൻക്രിപ്ഷനിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സീക്രെട്ട് കീയിൽ നിന്ന് പറ്റാവുന്ന പരമാവധി ബൈറ്റുകൾ ലഭ്യമാക്കുക എന്നതാണ് ഐഡിയ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 16 ബൈറ്റ്സ് ഉള്ളതുകൊണ്ട് 128 ബിറ്റിന്റെ കീ ആയിരിക്കും ലഭിക്കുക ഈ അറ്റാക്ക് റൺ ചെയ്തതുകൊണ്ട് ഈ അനിശ്ചിതത്വം ഒരു പരിധി വരെ കുറക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് നമ്മൾ അറ്റാക്ക് റൺ ചെയ്യുന്നു അപ്പോൾ പ്രിൻറ് ചെയ്യപ്പെടുന്നതാണ് കീ ബൈറ്റ്സ് ഇവിടെ മുതൽ അതായതു 4 മത്തെ മുതൽ 15 മത്തെ വരെ അറ്റാക്ക് പ്രോഗ്രാം തിരിച്ചറിഞ്ഞതാണ് ബ്രാക്കറ്റിൽ പ്രിൻറ് ചെയ്തിരിക്കുന്നത് 4 മത്തെ കീ 64 ആണ് പ്രോഗ്രാം 6 തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായതു കീയുടെ 4 മോസ്റ്റ് സിഗ്നിഫിക്കന്റ്റ് ബിറ്റ്സ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഓരോ റോ പറയുന്നത് എത്ര തവണ മെഷർമെൻറ്സ് എടുത്തു എന്നതാണ് ഇത് ഹെക്സ ഡെസിമൽ നോട്ടേഷൻ ആണ് ഉദാഹരണത്തിന് ഈ റോ എന്നത് 1024 ഇറ്ററേഷന് ശേഷം അതായത് AES ൻറെ എക്സിക്യൂഷൻ ടൈമിന്റെ 1024 മെഷർമെൻറ്സിന്റെ റിസൾട്ട് ആണ് അടുത്തതായി കാണുന്നത് ഇതിന്റെ ഇരട്ടിയാണ് അതായത് ഏതാണ്ട് 2048 ഇറ്ററേഷൻസ് അങ്ങനെ പോകുന്നു അതുകൊണ്ട് നമ്മൾ ടൈമിംഗ് മെഷർമെൻറ്സിന്റെ ടൈമിങിന്റെ എണ്ണം വർധിപ്പിക്കുമ്പോൾ ഇറ്ററേഷന്റെ എണ്ണം കൂടും അപ്പോൾ റിസൾട്ട് കൂടുതൽ കൂടുതൽ അക്ക്യൂറേറ്റ് ആകുന്നു ഈ പ്രോഗ്രാം 2 24 വരെ പോകും ഇതാണ് ആ ഇറ്ററേഷൻസ് കഴിഞ്ഞുള്ള റിസൾട്ട് അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് അറ്റാക്കിനു ശരിയായി പ്രവചിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ ഇത് 6 ആണ് അറ്റാക്കിനും 6 തന്നെ കിട്ടി അടുത്ത ബൈറ്റ് 50 ആണ് അറ്റാക്കിനു കിട്ടിയത് 7 ആണ് അത് തെറ്റി ഈ രീതിയിൽ നമുക്ക് അറ്റാക്കിന്റെ കറക്ട്നെസ്സ് കണ്ടുപിടിക്കാം സമയപരിമിതി കൊണ്ട് നമുക്ക് അറ്റാക്ക് ഇവിടെ നിർത്താം എന്നിട്ട് എത്ര ബൈറ്റ് കിട്ടിയെന്നും എത്ര എണ്ണം ശരിയായി വന്നുവെന്നും നോക്കാം ഉദാഹരണത്തിന് ഇവിടെ ഈ ബൈറ്റ് ശരിയായി കിട്ടിയിട്ടുണ്ട് ഇത് 6 ആണ് അങ്ങനെ ഈ ബൈറ്റ് മുഴുവനായി കണ്ടെത്തിയിട്ടുണ്ട് ഈ 16 ബൈറ്റ്സിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ലേബലുകൾ ഈ ബ്രേസസ്സിൽ കാണുന്ന റിസൾട്ടുമായി താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം അറ്റാക്ക് 4 നിബ്ബ്ൾസ് ശരിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് ഇവിടെ ഈ കാണുന്ന നിബ്ബ്ൾസ് ഇത് ഇത് പിന്നെ അവസാനം ഇതും ഇപ്പോൾ നമുക്ക് കീയെ കുറിച്ചു എത്രത്തോളം അറിയാം എന്ന് നോക്കാം ടൈമിംഗ് അറ്റാക്കിനു മുൻപ് നമുക്കുണ്ടായിരുന്നത് 128 ബിറ്റ് സൈസ് ഉള്ള കീ ആയിരുന്നു അതായതു കീയെ കുറിച്ചുള്ള നമ്മുടെ അനിശ്ചിതത്വം 128 ബിറ്റ് ആയിരുന്നു ശരിക്കുള്ള കീ 2 128 സാധ്യതകളിൽ ഒന്നായിരുന്നു ടൈമിംഗ് അറ്റാക്കിനു ശേഷം നമ്മൾ 4 നിബ്ബ്ൾസ് ശരിയായി പ്രവചിച്ചിട്ടുണ്ട് ആയതിനാൽ ഇത് നമ്മൾ സീക്രെട്ട് കീയുടെ ൧൬ ബിറ്റുകൾ തിരിച്ചറിഞ്ഞത് പോലാണ് അങ്ങനെ കീയുടെ അനിശ്ചിതത്വം നമ്മൾ 128 ബിറ്റിൽ നിന്ന് 128 bits minus 8 ആയി കുറച്ചു അതായത് അനിശ്ചിതത്വം 112 ബിറ്റുകളായി കുറഞ്ഞു അങ്ങനെ നമുക്ക് കീയെ കുറിച്ചുള്ള അനിശ്ചിതത്വം കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ക്യാഷെ മെമ്മറിയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പ്രാഥമികമായ അറ്റാക്കുകളിൽ ഒന്നാണ് കൂടുതൽ അക്ക്യൂറസിയോടുകൂടി സീക്രെട്ട് കീ ലഭ്യമാക്കുന്ന മെച്ചപ്പെട്ട അഡ്വാൻസ്ഡ് അറ്റാക്കുകൾ ലഭ്യമാണ് ഈ വിഭാഗത്തിലെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് അറ്റാക്കുകളെ കുറിച്ചു വായിക്കാനും ഈ അറ്റാക്ക് ട്രൈ ചെയ്തു നോക്കുക എന്നതും സീക്രെട്ട് കീയെ കുറിച്ചുള്ള അനിശ്ചിതത്വം നമ്മൾ ഇവിടെ കണ്ടതിനേക്കാൾ എങ്ങനെ കുറക്കാം എന്നതും വായനക്കാർക്ക് വിടുകയാണ്